10 മണിക്കൂർ ദൈർഘ്യമുള്ള കോഴ്സായ ബയോറിയാക്ടറുകളെക്കുറിച്ചുള്ള NPTEL ഓൺലൈൻ സർട്ടിഫിക്കേഷൻ കോഴ്സിലെ പ്രഭാഷണം 4 ലേക്ക് സ്വാഗതം അവസാന പ്രഭാഷണത്തിൽ പ്രഭാഷണ നമ്പർ 3 ഇൽ പൊതുവായി പ്രോബ്ലെംസ് എങ്ങനെ പരിഹരിക്കാമെന്ന് നമ്മൾ പരിശോധിക്കുകയും സ്റ്റെറിലൈസഷൻ കയ്നെറ്റിക്സ് ആയി ബന്ധപ്പെട്ട ഒരു പ്രോബ്ലം നമ്മൾ പരിഹരിക്കുകയും ചെയ്തു നമ്മൾ ശ്രദ്ധിക്കേണ്ടതും മനസ്സിൽ സൂക്ഷിക്കുന്നതും എല്ലായ്പ്പോഴും പരിശോധിക്കുന്നതും ഒകെ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ അന്തിമ ഉത്തരത്തിലെത്തിയതിനുശേഷം ഇതിനു എന്തെങ്കിലും അർത്ഥമുണ്ടോയെന്ന് പരിശോധിക്കുക ഉദാഹരണത്തിന് നമ്മൾ ഏകദേശം 7500 മണിക്കൂർ അല്ലെങ്കിൽ അതുപോലെയുള്ള എന്തെങ്കിലും ഉത്തരം കാണുകയോ നേടുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ തിരികെ പോയി നമ്മുടെ കണക്കുകൂട്ടലുകൾ പരിശോധിക്കേണ്ടതുണ്ട് നമ്മൾ പൂർത്തിയാക്കിയ ശേഷം നമ്മുടെ കണക്കുകൂട്ടലുകൾ പരിശോധിക്കുന്നത് എല്ലായ്പ്പോഴും നല്ലതാണ് എന്നാൽ എല്ലായ്പ്പോഴും നമ്മൾ മനസ്സിൽ കിട്ടുന്നു സംഖ്യയുടെ യാഥാർത്ഥ്യം നിലനിർത്തുക 7500 മണിക്കൂർ എന്നത് ഏത് സാഹചര്യത്തിനും അല്പം വേറിട്ടതാണ് മികച്ചതാക്കാൻ പ്രതീക്ഷിക്കുന്ന സംഖ്യകളെക്കുറിച്ച് മികച്ച ആശയം നേടുന്നതിന് അനുഭവം എല്ലായ്പ്പോഴും നമ്മളെ സഹായിക്കുന്നു നമ്മൾ ഒരു ബയോ റിയാക്ടറെ നോക്കുമ്പോൾ 7500 മണിക്കൂർ പോലും അല്പം വിചിത്രമായി തോന്നുന്നു അതേ സമയം നമുക്ക് ഏകദേശം 10 പവർ മൈനസ് 3 സെക്കൻഡ് ഉത്തരം ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഇത് പരിഹാസ്യമായി ഹ്രസ്വമാണെന്ന് തോന്നുന്നു അതിനാൽ ഈ രണ്ട് സാഹചര്യങ്ങളിലും സമീപനം കണക്ക് മൊത്തത്തിലുള്ള കണക്കുകൂട്ടലുകൾ എന്നിവ പരിശോധിക്കുന്നത് നല്ലതാണെന്ന് ഞാൻ കരുതുന്നു ഇത് സമാനമായ ഒന്നാണ് നമ്മൾ പ്രവർത്തിക്കുന്നുവെന്ന് കരുതുക പൈപ്പ് വലുപ്പങ്ങൾ നമുക്ക് ഏകദേശം 50 മീറ്റർ എന്ന് ഉത്തരം ലഭിക്കും പൈപ്പ് വ്യാസം 50 മീറ്ററാണെന്ന് നമുക്കറിയാം വേറിട്ട ഒരു ഉദാഹരണം എടുത്താൽ 50 മീറ്റർ വ്യാസമുള്ള ഒന്ന് നമുക്ക് സങ്കൽപ്പിക്കാൻ കഴിയാത്ത ഒന്ന് ആണെന്ന് അറിയാമോ 50 മീറ്റർ വ്യാസമുള്ള പൈപ്പ് വലുപ്പം സങ്കൽപ്പിക്കാൻ പോലും കഴിയില്ല അതിനാൽ നമ്മുടെ ഉത്തരത്തിന്റെ ഈ ചിത്രം എല്ലായ്പ്പോഴും മനസ്സിൽ സൂക്ഷിക്കുകയും അത് പരിശോധിക്കുകയും വേണം ദയവായി ഓരോ തവണയും ഇത് ചെയ്യുക അടുത്ത പ്രാക്ടീസ് പ്രോബ്ലം ചെയ്യുമ്പോൾ ഞാൻ ഇത് വീണ്ടും ഊന്നിപ്പറയുന്നു മൊഡ്യൂൾ 2 ബയോമാസ് സെല്ലുകൾbiomass ബയോ പ്രൊഡക്റ്റുകൾ എന്നിവയിൽ തുടരാം ബയോമാസ് അല്ലെങ്കിൽ സെല്ലുകൾ ബയോ ഉൽപ്പന്നങ്ങൾ ഏതൊരു ബയോപ്രോസസിന്റെയും രണ്ട് പ്രധാന ഫലങ്ങൾ ഇവയാണ് അവ സ്വയം കോശങ്ങളാകാം അല്ലെങ്കിൽ അവ ഈ കോശങ്ങൾ നിർമ്മിച്ച തന്മാത്രകളാകാം ഇവ ഓരോന്നായി നോക്കാം ചിലപ്പോൾ കോശങ്ങൾ തന്നെ ഉൽപ്പന്നമാണ് തുടക്കത്തിൽ അൽപ്പം വേറിട്ടതായി തോന്നാമെങ്കിലും ഇത് പരിഗണിക്കാം കൃത്രിമ അവയവങ്ങളെക്കുറിച്ച് നിങ്ങൾ കേട്ടിരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് കൃത്രിമ ചർമ്മം ഞാൻ കരുതുന്നത് ആദ്യത്തെ ജനപ്രിയ അവയവമാണ് തുടർന്നു വിക്ടിമ്മ്സ് കത്തികപെടുന്നു പിന്നെ സുഖപ്പെടുന്നു ഉചിതമായ ബയോ റിയാക്ടറുകളിൽ കൃത്രിമമായി ഉൽപാദിപ്പിക്കുന്ന നിരവധി വ്യത്യസ്ത അവയവങ്ങൾ ഇപ്പോൾ നമ്മുടെ പക്കലുണ്ട് അവ ഈ ബയോ റിയാക്ടറുകൾ തന്നെ അല്പം വ്യത്യസ്തമായി കാണപ്പെടാം അവയവവുമായി സാമ്യമുള്ള ഒരു സ്കാർഫോൾഡിലാണ് കോശങ്ങൾ വളരുന്നത് അതിനാൽ നമുക്ക് ആകാരം ലഭിക്കുന്നു തുടർന്ന് പ്രവർത്തനം കൊണ്ടുവരുന്നു അതിനാൽ നമുക്ക് ഒരു പ്രവർത്തനക്ഷമമായ അവയവം ഉള്ളതിനാൽ അത് ട്രാൻസ്പ്ലാന്റ് ചെയാം ഒരുപക്ഷേ മോശമായിപ്പോയ ഒരു അവയവത്തിന്റെ സ്ഥാനത്ത് കരൾ വൃക്ക തുടങ്ങിയവ തീർച്ചയായും ഉണ്ടാകും ജനപ്രിയമായ ചർമ്മത്തെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു ബയോ റിയാക്ടറുകൾ ഉപയോഗിച്ച് വിവിധ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന സ്റ്റെം സെല്ലുകളും നമുക്ക് വളർത്താം ഈ സാഹചര്യങ്ങളിലെല്ലാം കോശങ്ങൾ തന്നെയാണ് ബയോ റിയാക്ടറിൽ നിന്നുള്ള പ്രധാന ഉൽപ്പന്നം കൂടാതെ എല്ലാ ശ്രമങ്ങളും നമുക്ക് ആവശ്യമായ കോശങ്ങളുടെ സാന്ദ്രത ഉണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതിലേക്ക് പോകുന്നു ആവശ്യമുള്ളത് എനിക്ക് തോന്നുന്നു ഞാൻ നിർദ്ദേശിച്ച ഒരു വീഡിയോ ഇവിടെ ഉണ്ടെന്ന് ഇത് നമുക്ക് ലഭ്യമായ ഫയലിൽ നിന്നാണ് വെബ്സൈറ്റുകൾ വീഡിയോകൾ പേപ്പറുകൾ എന്നിവ ശുപാർശ ചെയ്യുന്നു ചുവടെയുള്ള ചില ഉറവിടങ്ങളിൽ ചിത്രീകരിച്ചിരിക്കുന്ന വാണിജ്യ ബ്രാൻഡുകളൊന്നും IIT മദ്രാസും ഞാനും ശുപാർശ ചെയ്യുകയോ അംഗീകരിക്കുകയോ ചെയ്യുന്നില്ലെന്നും ഞാൻ ഇതിന്റെ ഒപ്പം ചേർക്കുന്നു ഉറവിടങ്ങൾ അവയുടെ പെഡഗോഗിക് മൂല്യം നോക്കി തിരഞ്ഞെടുത്തു ഇത് ഞാൻ സൂചിപ്പിച്ച 12 ആം നമ്പറാണ് ടിഷ്യു എഞ്ചിനീയറിംഗിനായുള്ള ബയോ റിയാക്ടർ ഇതാണ് ലിങ്ക് നമുക്ക് ലിങ്കിൽ ക്ലിക്കുചെയ്ത് പോയി വീഡിയോ കാണാം അവയവങ്ങൾ നിർമ്മിക്കുന്നതിന് ബയോ റിയാക്ടറുകൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിനെക്കുറിച്ച് ഇത് നമുക്ക് ചില ആശയങ്ങൾ നൽകുന്നു നമ്മൾ കേട്ടിരിക്കാം സ്പിരുലിന എന്ന് വിളിക്കപ്പെടുന് ആൽഗ വളർത്തി പ്രോസസ്സ് ചെയ്ത് പാക്കേജുചെയ്ത് ന്യൂട്രാസ്യൂട്ടിക്കലായി വിൽക്കുന്നു പലരും അത് ഉപയോഗിക്കുന്നു വലിയ ബയോ റിയാക്ടറുകളിലാണ് ഇവ വളരുന്നത് സിംഗിൾ കോശ പ്രോട്ടീൻ എന്ന് വിളിക്കപ്പെടുന്ന കാര്യത്തിലും സമാനമാണ് സിംഗിൾ കോശ പ്രോട്ടീൻ 1970 കളിലും 80 കളിലും കന്നുകാലികൾക്ക് കാലിത്തീറ്റയായി വളരെ പ്രചാരത്തിൽ വന്നതായിരുന്നു അവ യീസ്റ്റ് കോശങ്ങൾ അലാതെ മറ്റൊന്നുമല്ല അവ ബയോ റിയാക്ടറുകളിൽ വളർത്തുകയും സംസ്കരിച്ച് കന്നുകാലികൾക്ക് കാലിത്തീറ്റയായി നൽകുകയും ചെയ്യുന്നു ഈ 2 കേസുകളിൽ സ്പിരുലിന സിംഗിൾ കോശ പ്രോട്ടീൻ കോശങ്ങൾ തന്നെ ഉൽപ്പന്നങ്ങളാണ് എന്നിരുന്നാലും ആമുഖത്തിൽ നമ്മൾ ഇതിനകം കണ്ടതുപോലെ മറ്റ് നിരവധി ഉൽപ്പന്നങ്ങൾ ഉണ്ട് കോശങ്ങൾ ഉൽപാദിപ്പിക്കുന്ന ഇൻസുലിൻ മോണോക്ലോണൽ ആന്റിബോഡികൾ എത്തനോൾ ബയോ ഓയിൽ തുടങ്ങിയവ നമ്മൾ കണ്ടുവെന്ന് ഞാൻ കരുതുന്നു കോശങ്ങൾ ഉൽപാദിപ്പിക്കുന്ന തന്മാത്രകളാണിവ അവ ഉൽപ്പന്നങ്ങളാണ് 2 പ്രധാന തരം ഉൽപ്പന്നങ്ങൾ ഉണ്ട് കോശങ്ങൾ അല്ലെങ്കിൽ കോശങ്ങൾ നിർമ്മിച്ച തന്മാത്രകൾ ബയോ റിയാക്ടറുകളിൽ നിന്നുള്ള പ്രധാന ഉൽപ്പന്നങ്ങളാണ് പ്രാരംഭ പ്രഭാഷണങ്ങളിൽ ഡൈനാമിക് സിസ്റ്റംസ് പരിഗണിക്കുമ്പോൾ നിരക്കുകൾ ഉപയോഗിക്കേണ്ടതിന്റെ ആവശ്യകത നമ്മൾ കണ്ടു നമ്മുടെ തീരുമാനങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ഒരു കേന്ദ്ര പാരാമീറ്ററാണ് നിരക്ക് എന്ന് നമ്മൾ പറഞ്ഞു അതിനാൽ അത് പ്രധാന പാരാമീറ്ററായി കണക്കാക്കപ്പെടുന്നു ഡൈനാമിക് സിസ്റ്റങ്ങൾ എഞ്ചിനീയറിംഗ് സിസ്റ്റങ്ങൾ തുടങ്ങിയവയുമായി ഇടപെടുമ്പോൾ നാം എടുക്കേണ്ട തീരുമാനങ്ങൾക്ക് അൽപ്പം ആശയക്കുഴപ്പമുണ്ടാക്കുന്ന അളവുകളും മറ്റും നമ്മൾ പരിഗണിക്കുന്നില്ല അതിനാൽ നമ്മൾ നിരക്കുകളും പരിഗണിക്കും എല്ലാം നിരക്കുകളിലേക്ക് നയിക്കും മോഡൽ ചെയ്യും മോഡലുകൾ നിരക്കുകളിലേക്ക് നയിക്കപ്പെടും ഗണിതശാസ്ത്ര മോഡലുകൾ നിരക്കുകളിലേക്ക് നയിക്കപ്പെടും എല്ലാ ചർച്ചകളും നിരക്കുകളിലേക്ക് നയിക്കപ്പെടും നമ്മൾ ഇത് ആന്തരികമാക്കേണ്ടതുണ്ട് ആന്തരികവൽക്കരണത്തിന് ഇത് കുറച്ച് സമയമെടുക്കും പ്രത്യേകിച്ചും ഈ ആശയങ്ങൾ ചിലത് ഒരു ബാച്ച് സിസ്റ്റത്തിന്റെ കാഴ്ചപ്പാടിൽ നിന്ന് സ്കൂൾ തലത്തിൽ നമുക്ക് പരിചയപ്പെടുത്തിയതിനാൽ ഇത് ചില ഏകദേശ കണക്കുകളിൽ പ്രവർത്തിക്കുന്നു പക്ഷേ എല്ലാ സാഹചര്യങ്ങളിലും അല്ല പ്രത്യേകിച്ച് തുടർച്ചയായ ഒരു കേസിലല്ല നമ്മൾ അത് ആന്തരികമാക്കേണ്ടതുണ്ട് അത് കടന്നുപോകുന്നതുവരെ ഞാൻ ഇത് ആവർത്തിക്കുന്നു ഒരു വശത്ത് കോശങ്ങൽ വർദ്ധികുനറ്റിന്റെ നിരക്കും ഉൽപ്പന്ന രൂപീകരണ നിരക്കും നമുക്ക് പ്രധാന നിരക്കുകളാണ് ശരിയാണ് കോശങ്ങളുടെ വർദ്ധനവ് എങ്ങനെയാണ് ഒരു കോശം ബയോ റിയാക്ടറിലെ 2 കോശമായി മാറുന്നു അത് പിന്നെ 4 കോശമായി മാറുന്നു എന്നിങ്ങനെ പോകുന്നു മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ബയോ റിയാക്ടറിലെ കൾച്ചർ വളരുകയാണ് അല്ലേ അതിനാൽ കോശങ്ങളുടെ വർദ്ധനവ് കൾച്ചർ വളർച്ച അല്ലെങ്കിൽ വെറുതെ വളർച്ച എന്നിവയെല്ലാം ഒരേ കാര്യം അർത്ഥമാക്കുന്നു കോശങ്ങൾ നമ്മൾ ഒരു അടിസ്ഥാന ബയോളജി കോഴ്സിൽ പഠിച്ചിരിക്കാം അവ കോശങ്ങളുടെ സൈക്കിൾ എന്ന് വിളിക്കപ്പെടുന്നവയ്ക്ക് വിധേയമാകുന്നു മാത്രമല്ല ഇത് എല്ലായ്പ്പോഴും ഒരുതരം വളർച്ചയായി കാണപ്പെടുന്നു എല്ലായ്പ്പോഴും അല്ല പക്ഷെ നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല നമ്മൾ സംസാരിക്കുന്നത് കോശങ്ങളുടെ വർദ്ധനയെ കുറച്ച നമ്മൾ ഇത് മനസ്സിൽ സൂക്ഷിക്കേണ്ടതുണ്ട് കോശങ്ങളുടെ സൈക്കിളിൽ കോശങ്ങളുടെ വോളിയം മാറുന്നതല്ല മറ്റും കോശങ്ങളുടെ സൈക്കിളിൽ ഓരോ കോശത്തിന്റെയും വോളിയം മാറുന്നു അത് ഇവിടെ വളർച്ചയെ നമ്മൾ പരിഗണിക്കുന്നില്ല ഇതാണ് കൾച്ചർ വളർച്ച അല്ലെങ്കിൽ കോശങ്ങളുടെ ഗുണനം ഒരൊറ്റ കോശമാണ് നമ്മൾ പരിഗണിക്കുന്നതെങ്കിൽ ഏറ്റവും ലളിതമായ ഗണിത പ്രാതിനിധ്യം അല്ലെങ്കിൽ ഒരു ഗണിതശാസ്ത്ര മാതൃക ഇപ്രകാരമാണ് നൽകിയ കോശങ്ങളുടെ വളർച്ചയുടെ നിരക്ക് കോശങ്ങളുടെ സാന്ദ്രത x ന് നേരിട്ട് ആനുപാതികമാണ് ആദ്യ ഓർഡർ മോഡൽ അല്ലെങ്കിൽ ഒരു നിശ്ചിത mu x ന് തുല്യമാക്കുന്നു rxμx സാഹചര്യം അനുസരിച്ച് mu ഒരു കോൺസ്റ്റന്റ് ആയിരിക്കാം അല്ലെങ്കിൽ ഉണ്ടാകില്ല എന്നത് ശ്രദ്ധിക്കുക നമ്മൾ ഇത് വീണ്ടും ആന്തരികമാക്കേണ്ടതുണ്ട് mu എന്നത് a ആയിരിക്കാം അല്ലെങ്കിൽ ഉണ്ടാകില്ല കൂടാതെ മോൾഡ് എന്ന് വിളിക്കപ്പെടുന്ന ജീവികളുമുണ്ട് ഉദാഹരണത്തിന് ബ്രെഡിൽ വളരുന്ന ഒരു സാധാരണ മോൾഡ് ആണ് ആസ്പർജില്ലസ് നൈഗർ അവ ഈ സ്ട്രിംഗി ജീവികളാണ് അവ അവയുടെ സ്ട്രാൻഡ്സ് വിപുലീകരിച്ചു വളരുന്നു അല്ലെകിൽ ഹൈഫേ എന്ന് വിളിക്കുന്ന അവ വിപുലം ആകുന്നു അവയുടെ മാസ്സ് കൂടുന്നു എന്നാൽ ഈ സംഖ്യ ഇപ്പോഴും ഒന്നായി പരിമിതപ്പെടുത്തിയിരിക്കുന്നു മാസ്സ് കൂടുന്നതിനനുസരിച്ച് അത്തരമൊരു സാഹചര്യത്തിൽ കോശങ്ങളുടെ സാന്ദ്രത x ആണെങ്കിൽ ഇത് സാധുവായിരിക്കില്ല നമ്മൾ ഇത് മനസ്സിൽ സൂക്ഷിക്കേണ്ടതുണ്ട് ആവശ്യാനുസരണം നമ്മൾ ഈ മോഡൽ ഉപയോഗിക്കും ഈ പ്രഭാഷണത്തിൽ ഞാൻ ചില ആശയങ്ങൾ അവതരിപ്പിക്കാൻ പോകുന്നു നമ്മൾ ഈ ആശയങ്ങൾ കുറച്ച് കഴിഞ്ഞ് ഉപയോഗിക്കും അതിനാൽ ഈ പ്രത്യേക പ്രഭാഷണത്തിലെ ആശയങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം കോശങ്ങളുടെ വളർച്ചയ്ക്ക് ലഭ്യമായ ഒരേയൊരു മോഡൽ ഇതല്ല അത്തരം നിരവധി മോഡലുകൾ ഉണ്ട് അവയിൽ ചിലത് നമ്മൾ കാണും ഇതൊരു ആമുഖ കോഴ്സായതിനാൽ അവയിൽ ചിലത് മാത്രം കാണും മറ്റൊരു മോഡൽ കാണിച്ചുതരാമെന്ന് ഞാൻ കരുതുന്നു ഇതിനെ ലോജിസ്റ്റിക് സമവാക്യം എന്ന് വിളിക്കുന്നു അത് ചില സാഹചര്യങ്ങളിൽ സഹായകരമാണ് എവിടെ rx നൽകിയിരിക്കുന്നത് rxkx1 βx ഇവിടെ k ബീറ്റ എന്നിവ സിസ്റ്റം അനുസരിച്ച് മാറുന്ന മോഡൽ പാരാമീറ്ററുകളാണ് ഇത് x തുടക്കത്തിലെ കോശങ്ങളുടെ സാന്ദ്രതയ്ക്ക് തുല്യമായ അവസ്ഥയുമായി പോകുന്നു xx0 at t0 ഇതിനെ ലോജിസ്റ്റിക് സമവാക്യം എന്ന് വിളിക്കുന്നു അത് ചില സാഹചര്യങ്ങളിൽ ഒരു നൂതന കോഴ്സിൽ ഒരാൾക്ക് സ്ട്രക്ച്ചർഡ് മോഡലുകൾ പരിഗണിക്കാം അത് കോശങ്ങളിലെ കമ്പാർട്ട്മെന്റലൈസേഷൻ ഉൾക്കൊള്ളുന്നു അല്ലെങ്കിൽ കണക്കിലെടുക്കുന്നു അവ ന്യൂക്ലിയസ് മൈറ്റോകോൺഡ്രിയ എന്നിങ്ങനെയുള്ള യഥാർത്ഥ കമ്പാർട്ടുമെന്റുകളായിരിക്കാമെന്ന് നമുക്ക് അറിയാം അല്ലെങ്കിൽ അവ ആശയപരമായിരിക്കാം കമ്പാർട്ട്മെന്റൽ അല്ലെങ്കിൽ സ്ട്രക്ച്ചർഡ് മോഡലുകളുടെ ചില ഉദാഹരണങ്ങൾ കംപാർട്ട്മെന്റൽ മോഡലുകൾ മെറ്റബോളിക് മോഡലുകൾ സൈബർനെറ്റിക് മോഡലുകൾ തുടങ്ങിയവയാണ് ഇതൊരു ആമുഖ കോഴ്സ് ആയതിനാൽ വിശദാംശങ്ങളിലേക്ക് കടക്കരുത് പക്ഷേ നമ്മൾ അവരുമായി സമ്പർക്കം പുലർത്തേണ്ടതുണ്ട് അതിനാൽ ഭാവിയിൽ അവ കാണുമ്പോൾ അവ തിരിച്ചറിയാൻ നമുക്ക് കഴിയും അവിടെ ചില മോഡലുകൾ ഉണ്ടാകാംഅത് കൾച്ചറിൽ ഉള്ള കോശങ്ങളുടെ പ്രായത്തിന്റെ ഡിസ്ട്രിബൂഷൻ കണക്കിലെടുക്കുന്നു അവിടെ മുകളിലെ മോഡൽ r x അതുപോലെ mu x തുല്യമാണെന്നും അതുപ്പോലെ r x എന്നത് kx ഇൻ റ്റു 1 മൈനസ് ബീറ്റ x എന്നാ ലോജിസ്റ്റിക് ഈക്വാഷൻ ആണ് rxkx1 βx ബയോ റിയാക്ടറിലെ എല്ലാ കോശങ്ങളും ഒരേ പ്രായത്തിലാണെന്ന് അവർ കണക്കാക്കി കോശങ്ങളിലെ പ്രായത്തിലുള്ള വ്യതിയാനങ്ങൾ ആകാം കൂടാതെ വേർതിരിക്കപ്പെട്ട മോഡലുകളിൽ വിതരണം വ്യത്യാസങ്ങൾ കണക്കിലെടുക്കുന്നു സബ്സ്ട്രേറ്റുകൾ ഒരു സബ്സ്ട്രേറ്റ് എന്താണെന്ന് നമ്മൾ ഇതിനകം കണ്ടു ഇപ്പോൾ വിശദമായി കോശങ്ങളുടെ വർധനയിലൂടെയും ബയോ ഉൽപ്പന്നങ്ങളിലൂടെയും കോശങ്ങളിലേക്കു പരിവർത്തനം ചെയ്യുന്നത് നമ്മൾ കാണും കോശങ്ങൾക്കുള്ളിലെ മെറ്റബോളിക് പ്രതികരണം അല്ലെങ്കിൽ കോശങ്ങൾക്കുള്ളിലെ ജനിതക പ്രക്രിയകൾ എന്നിവയിലൂടെ ബയോ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാൻ കഴിയും ജനിതക പ്രക്രിയകൾ എന്നത് ട്രാൻസ്ക്രിപ്ഷൻ ട്രാൻസ്ലേഷൻ DNAയുടെ ഭാഗമായ ജീൻ നിങ്ങൾക്കറിയാം അത് ട്രാൻസ്ക്രിപ്റ്റ് ചെയ്യപ്പെടുന്നു ഒരുപക്ഷേ ഒരു പ്രോട്ടീനിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുന്നു പ്രോട്ടീൻ ഒരു ഉൽപ്പന്നമാകാം അത് ഒരു ജനിതക പ്രക്രിയയുടെ ഫലമായുണ്ടാകുന്ന ഉൽപ്പന്നത്താലോ അല്ലെങ്കിൽ ബയോ റിയാക്ടറിലെ മെറ്റബോളിക് പ്രതികരണത്തിലൂടെ നിർമ്മിക്കപ്പെടുന്ന ഒരു മെറ്റാബോലൈറ്റ് ആകാം അതിനാൽ നമുക്ക് സബ്സ്ട്രേറ്റുകളെ അടുത്തറിയാം എന്താണ് സബ്സ്റ്റേറ്റുകൾ സാധാരണക്കാരന്റെ കാര്യത്തിൽ കോശങ്ങൾക്കുള്ള ഭക്ഷണമായ അസംസ്കൃത വസ്തുക്കളാണ് സബ്സ്ട്രേറ്റുകൾ ഒരു സാധാരണ ഉദാഹരണം ഗ്ലൂക്കോസ് C6H12O6 കാർബോഹൈഡ്രേറ്റ് ഗ്ലൂക്കോസ് സബ്സ്ട്രേറ്റുകളുടെ ഉത്തമ ഉദാഹരണമാണ് എന്തുകൊണ്ടാണ് നമ്മൾ ഗ്ലൂക്കോസിനെ നോക്കുന്നത് ഗ്ലൂക്കോസിസ് കോശങ്ങളിലെ ഒരു പ്രധാന മെറ്റബോളിക് പാതയുടെ ആരംഭ പോയിന്റായതിനാൽ ഗ്ലൈക്കോളിസിസിന് ഊർജ്ജ വശങ്ങളിൽ നിന്ന് പ്രാധാന്യമുണ്ട് അവ കോശത്തിന് ഊർജ്ജം നൽകുന്നു കോശത്തിന് ഊർജ്ജം നൽകേണ്ടത് അത്യാവശ്യമാണ് സാധാരണയായി എക്സ്ട്രാസെല്ലുലാർ സ്പേസിൽ നൽകുന്ന ഗ്ലൂക്കോസ് മെംബറേൻ ഗ്ലൂക്കോസിനെ ട്രാൻസ്പോർട്ടറുകളിലൂടെ കോശങ്ങളിലേക്കു കൊണ്ടുപോകുന്നു തുടർന്ന് അത് എൻസൈമാറ്റിക് പ്രതികരണത്തിലൂടെ ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റിലേക്ക് പരിവർത്തനം ചെയ്യപ്പെടുകയും മറ്റൊരു എൻസൈമാറ്റിക് പ്രതികരണത്തിലൂടെ 6 ഫോസ്ഫേറ്റ്0ഫ്രക്ടോസ് ആക്കുകയും ചെയ്യുന്നു മെറ്റബോളിക് പാതയിലെ ഒരു പ്രധാന ബ്രാഞ്ച് പോയിന്റായ പൈറുവേറ്റ് എന്നറിയപ്പെടുന്നു ഗ്ലൈക്കോലിസിസ് തന്നെ ഗ്ലൂക്കോസ് മുതൽ പൈറുവേറ്റ് വരെയാകണം ഇത് പ്രതികരണങ്ങളുടെ ഒരു പ്രധാന കൂട്ടമായതിനാൽ കോശത്തിൽ നടക്കുന്ന പ്രധാന മെറ്റബോളിക് പാത കോശങ്ങളിലെ മറ്റ് മെറ്റബോളിക് മാർഗങ്ങളിലൂടെ ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന മറ്റ് നിരവധി സബ്സ്ട്രേറ്റുകൾ ഉണ്ട് കോശങ്ങളിൽ മറ്റു മെറ്റബോളിക് പാതയിലൂടെ ഇതുപോലെ ഉപയോഗപ്രദമാകാവുന്ന മറ്റു സബ്സ്ട്രേറ്റ്കൾ ഉണ്ട് വിശദാംശങ്ങളിലേക്ക് കടക്കരുത് ഗ്ലൂക്കോസ് മാത്രമല്ല ഏക സബ്സ്ട്രേറ്റ് ഇത് വളരെ സാധാരണമായ ഒരു സബ്സ്ട്രേറ്റ് ആണ് വാസ്തവത്തിൽ സബ്സ്ട്രേറ്റ് മിശ്രിതമുണ്ടെങ്കിൽ പലതവണ കോശങ്ങൾ ഗ്ലൂക്കോസിനെ ഇഷ്ടപ്പെടുന്നു എന്നിരുന്നാലും ഒരു വ്യവസായത്തിന്റെ വീക്ഷണകോണിൽ നിന്ന് നോക്കുക ആണെകിൽ ഗ്ലൂക്കോസ് ചെലവേറിയതാണ് അതിനാൽ നമ്മൾ വിലയേറിയ അസംസ്കൃത വസ്തുക്കൾ വിലയേറിയ സബ്സ്ട്രേറ്റ് ഉപയോഗിച്ച് ആരംഭിക്കുകയാണെങ്കിൽ ഉൽപ്പന്നം കൂടുതൽ ചെലവേറിയതായി മാറുന്നു നമുക്ക് ഗ്ലൂക്കോസിനു ഒരു പകരക്കാരൻ ഉണ്ടെങ്കിൽ അത് അത്ര ചെലവേറിയതല്ല അത് വ്യവസായത്തിന് വളരെ നല്ലതാണ് കാരണം ഇത് ബയോപ്രോസസിന്റെ വില കുറയ്ക്കുന്നു ഗ്ലൂക്കോസിനുള്ള വളരെ സാധാരണമായ ബദലുകൾ നിങ്ങൾക്കറിയാവുന്ന അന്നജമാണ് നിങ്ങൾക്കറിയാവുന്ന അതേ അന്നജം സെല്ലുലോസ് നമുക്ക് ചുറ്റുമുള്ള എല്ലാ വിറകിലും സെല്ലുലോസ് അതുപോലെ ലിഗ്നോ സെല്ലുലോസിക് വസ്തുക്കൾ അടങ്ങിയിരിക്കുന്നു ഗ്ലൂക്കോസ് സ്രോതസ്സായി ലിഗ്നോ സെല്ലുലോസിക് വസ്തുക്കളിൽ നിലവിൽ വളരെയധികം ഗവേഷണം നടത്തുന്നു സെല്ലുലോസ് ലിഗ്നോ സെല്ലുലോസിക് വസ്തുക്കൾ എല്ലാ സസ്യങ്ങളിലും ധാരാളമായി കാണപ്പെടുന്നു മരം ഗ്ലൂക്കോസിന്റെ ഇതര ഉറവിടങ്ങളാണ് എല്ലാ പ്രകാശസംശ്ലേഷണത്തിന്റെയും ഉറവിടം നമുക്കുണ്ടായിരിക്കാം ഒന്നെകിൽ പരിഗണിക്കാം അല്ലെങ്കിൽ പരിഗണിക്കില്ലെന്ന് നമുക്കറിയാം എല്ലാ പ്രകാശസംശ്ലേഷണ ജീവികളുടെയും കാർബൺ ഉറവിടം വായുവിലെ CO2 ആണ് അതിനാൽ നമ്മൾ കണ്ടെത്തിയ എല്ലാ വിറകിലെ കാർബണും വായുവിലെ CO2 ൽ നിന്നാണ് വന്നത് ഇത് ഇപ്പോൾ 3 ശതമാനം 4 ശതമാനമെങ്കിലും ആഗോളതാപനത്തിലും മറ്റും ഉൾക്കൊള്ളുന്നുണ്ടെങ്കിലും പ്രകാശസംശ്ലേഷണ ജീവികൾക്ക് കാർബണിന്റെ ഉറവിടം ഇതാണ് അന്നജവും സെല്ലുലോസും ഗ്ലൂക്കോസിന്റെ പോളിമറുകളാണ് ഉദാഹരണത്തിന് ഇത് നമ്മൾ കാണുന്ന 1 ഗ്ലൂക്കോസ് തന്മാത്രയാണ് ഇത് ഇവിടെ ഓക്സിജനാണ് ഞാൻ സൂചിപ്പിച്ചിട്ടില്ല പക്ഷെ ഇത് ഓക്സിജനാണ് ഇത് കാർബൺ 1 കാർബൺ 2 കാർബൺ 3 കാർബൺ 4 കാർബൺ 5 കാർബൺ 6 C6H12O6 ആണ് അതിനാൽ ഇവിടെ എഴുതിയ പൈറനോസ് രൂപമാണിത് തുടർന്ന് മറ്റ് ഗ്ലൂക്കോസ് തന്മാത്രകളുമായി ഈ രീതിയിൽ ബന്ധിപ്പിച്ചിരിക്കുന്നു ഇത് അമിലോസ് എന്നറിയപ്പെടുന്ന അന്നജത്തിന്റെ ഒരു രൂപമാണ് അതിനാൽ നമ്മൾ ഈ ബോണ്ടുകളെ അന്നജത്തിൽ നിന്ന് തകർക്കുകയാണെങ്കിൽ നമുക്ക് കോശങ്ങൾക്ക് ഗ്ലൂക്കോസ് ലഭിക്കും അന്നജം ധാരാളമായി കാണപ്പെടുന്നു അതിനാൽ ഇത് വിലകുറഞ്ഞതിനാൽ അന്നജം കോശങ്ങൾക്ക് ഗ്ലൂക്കോസിന്റെ ഉറവിടമാകാം സെല്ലുലോസിന് അമിലോസ് അമിലോപെക്റ്റിൻ അന്നജം എന്നിവ അറിയാവുന്ന അല്പം വ്യത്യസ്തമായ ശാഖകളുണ്ട് തുടർന്ന് സെല്ലുലോസ് അല്പം വ്യത്യസ്ത ബോണ്ടിംഗും ബ്രാഞ്ചിംഗും ആയിരിക്കും അവയെല്ലാം അന്നജത്തിന്റെ പോളിമറുകളാണ് പൊതുവേ ഒരു മാധ്യമം നമ്മൾ നേരത്തെ മാധ്യമങ്ങളെക്കുറിച്ച് സംസാരിച്ചിരുന്നു അതാണ് സങ്കീർണ്ണമായ പദാർത്ഥം കോശങ്ങൾ വളരുന്ന പദാർത്ഥം കോശങ്ങൾ വളരുന്നതിനുള്ള എല്ലാ പോഷകങ്ങളും ഇത് നൽകുന്നു അതായത് കൾച്ചർ കോശങ്ങൾ പെരുകുക വളരുന്ന കൾച്ചർ തുടങ്ങിയവ മീഡിയം ഒന്നുകിൽ സങ്കീർണ്ണമോ നിർവചിക്കാവുന്നതോ ആകാം നിർവചിച്ചിരിക്കുന്നത് അവിടെയുള്ളതെല്ലാം നമുക്ക് അറിയാമെന്നാണ് സങ്കീർണ്ണമായ അർത്ഥം നമുക്ക് മീഡിയത്തിന്റെ എല്ലാ വിശദാംശങ്ങളും അറിയില്ലായിരിക്കാം പൊതുവേ ഒരു മീഡിയത്തിൽ ഒരു കാർബൺ ഉറവിടം അടങ്ങിയിരിക്കുന്നു ഗ്ലൂക്കോസ് വളരെ സാധാരണ കാർബൺ ഉറവിടമാണ് സസ്യങ്ങളുടെ കാര്യത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് കാർബൺ ഉറവിടമാണെന്ന് നമ്മൾ സംസാരിച്ചു ATP രൂപപ്പെടുന്നതിലേക്ക് നയിക്കുന്ന ഊർജ്ജ സ്രോതസ്സുകളും മറ്റും അത് കാർബൺ ഉറവിടത്തിന് തുല്യമാകാം അല്ലെങ്കിൽ അത് വ്യത്യസ്തമായിരിക്കും ഗ്ലൂക്കോസ് ഈ പാതയിലേക്ക് പ്രവേശിക്കുന്നുവെന്ന് നമുക്ക് അറിയാം തുടർന്ന് TCA സൈക്കിൾ എന്ന് വിളിക്കപ്പെടുന്ന മറ്റൊരു പാത തുടർന്ന് ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ അതുവഴി ATP ഉൽപാദിപ്പിക്കുന്നു ഈ സാഹചര്യത്തിൽ ഗ്ലൂക്കോസ് ഊർജ്ജ സ്രോതസ്സാണ് നമുക്ക് ഊർജ്ജം ഉൽപാദിപ്പിക്കുന്ന മറ്റ് മാർഗങ്ങൾ പലതും ഉണ്ടായിരിക്കാം ഊർജ്ജ സ്രോതസ്സ് കാർബൺ ഉറവിടത്തിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും സസ്തന കോശങ്ങൾക്കുള്ള ഊർജ്ജ സ്രോതസ്സാണ് ഗ്ലൂട്ടാമൈൻ നൈട്രജൻ ഉറവിടം കാരണം കോശങ്ങൾക്ക് നൈട്രജൻ കാർബൺ നൈട്രജൻ ഓക്സിജൻ ഹൈഡ്രജൻ ഫോസ്ഫറസ് തുടങ്ങിയവ കോശങ്ങളിലെ ജീവനുള്ള സിസ്റ്റങ്ങളിൽ അവശ്യ ഘടകങ്ങളാണ് മീഡയത്തിൽ ലവണങ്ങൾ അടങ്ങിയിരിക്കുന്നു വിറ്റാമിനുകൾ ധാതുക്കൾ തുടങ്ങിയ പോഷകങ്ങൾ മീഡിയത്തിൽ അടങ്ങിയിരിക്കാം അതിനാൽ പൊതുവേ ഒരു മീഡയത്തിൽ അടങ്ങിയിരിക്കുന്നത് ഇതാണ് നമ്മൾ ഒരു സബ്സ്ട്രേറ്റ് ഗ്ലൂക്കോസ് നോക്കി മറ്റ് കാര്യങ്ങളിൽ നിന്ന് ഗ്ലൂക്കോസ് ലഭിക്കുന്നതിനുള്ള വഴി തുടങ്ങിയവ പരിശോധിച്ചു ഇപ്പോൾ നമ്മൾ ഒരു ലിമിറ്റിങ് സബ്സ്ട്രേറ്റ് എന്ന് വിളിക്കുന്ന ഒന്ന് നോക്കേണ്ടതുണ്ട് ഇപ്പോൾ നമ്മൾ ചില 23 അല്ലെങ്കിൽ 4 ആശയങ്ങൾ നോക്കുന്നു നമ്മൾ ഇപ്പോൾ അവ ഉപയോഗിക്കില്ല പക്ഷേ അവ എന്താണെന്ന് മനസിലാക്കാൻ നമ്മൾ ശ്രമിക്കും പിന്നീട് അവ ഉപയോഗിക്കുക ലിമിറ്റിങ് സബ്സ്ട്രേറ്റ് അത്തരമൊരു ആശയമാണ് ഇത് ലിമിറ്റിങ് സബ്സ്ട്രേറ്റ് ലിമിറ്റിങ് പ്രതികരണം എന്ന ആശയത്തിന് സമാനമാണ് രാസപ്രവർത്തനങ്ങളുടെ കാര്യത്തിൽ ലിമിറ്റിങ് പ്രതികരണം എന്നത് എന്താണെന്നു നമുക്കെല്ലാവർക്കും അറിയാം ലിമിറ്റിങ് പ്രതിപ്രവർത്തനത്തിന്റെ സാന്ദ്രത പ്രതികരണത്തിന്റെ വ്യാപ്തിയെ പരിമിതപ്പെടുത്തുന്നു അല്ലെങ്കിൽ ഒരു ബാച്ചിൽ ആദ്യം ഉപയോഗിക്കുന്ന ഒരു ബാച്ചിൽ അവിടെ പ്രധാനമാണ് പ്രതിപ്രവർത്തനത്തിന്റെ വ്യാപ്തിയെ പരിമിതപ്പെടുത്തുന്ന സാന്ദ്രതയെ പരിമിതപ്പെടുത്തുന്ന പ്രതിപ്രവർത്തനം എന്ന് നമ്മൾ പറയും ഇത് കുറച്ചുകൂടി നന്നായി മനസ്സിലാക്കാൻ ഒരു ഉദാഹരണം നോക്കാം ഇനിപ്പറയുന്ന സ്റ്റൈക്കിയോമെട്രി നമുക്ക് പരിഗണിക്കാം 2A 3B → P മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ നമുക്ക് 1 മോളിലെ P നൽകുന്നതിന് പൂർണ്ണമായും റിയാക്ട് ചെയ്യാൻ Aയുടെ 2 മോളുകൾക്ക് B യുടെ 3 മോളുകൾ ആവശ്യമാണ് റിയാക്ടറിലേക്കുള്ള ഇൻപുട്ട് സ്ട്രീം സംഭവിക്കുകയാണെങ്കിൽ ഇത് ഒരു തുടർച്ചയായ പ്രക്രിയയാണെന്ന് നമുക്ക് പറയാം ഇതിലേക്ക് ഒരു റിയാക്റ്ററിലേക് ഇൻപുട്ട് സ്ട്രീം ഉണ്ട് ഇതിൽ 10 മോളാർ സാന്ദ്രത Bയുടെ 10 മോളാർ സാന്ദ്രത എന്നിവ അടങ്ങിയിരിക്കുന്നു ഈ മോളാർ ഒരു ലിറ്ററിന് മോളുകളല്ലാതെ മറ്റൊന്നുമല്ല ഇത് Aയുടെ സാന്ദ്രത ആണ് Bയുടെയും സാന്ദ്രത അപ്പോൾ പ്രതികരണം B കൊണ്ട് പരിമിതപ്പെടുത്താൻ പോകുന്നു കാരണം A യുടെ 10 മോളാർ സാന്ദ്രത പൂർണ്ണമായും പ്രതിപ്രവർത്തിക്കാൻ 3 മുതൽ 2 വരെ 10 മോളുകളുടെ മോളാർ സാന്ദ്രത ആവശ്യമാണ് പൂർണ്ണമായും ഉപഭോഗം ചെയ്യുന്നതിന് 15 മോളാർ സാന്ദ്രത B വേണം കൂടാതെ B യുടെ 10 മോളാർ സാന്ദ്രത മാത്രമേ ഉള്ളൂ B പ്രതിപ്രവർത്തനത്തെ പരിമിതപ്പെടുത്തും A അവശേഷിക്കും അതിനാൽ B പരിമിതപ്പെടുത്തുന്ന പ്രതിപ്രവർത്തനമാണ് അതുപോലെ വളർച്ചയെ പരിമിതപ്പെടുത്തുന്ന മീഡയത്തിലെ സബ്സ്ട്രേറ്റ്നെ നമുക്ക് ലിമിറ്റിങ് സബ്സ്ട്രേറ്റ് എന്ന് വിളികാം നമുക്ക് നിരവധി വ്യത്യസ്ത സബ്സ്ട്രേറ്റുകൾ ഉണ്ടാകാം നമ്മൾ കാർബൺ ഉറവിടത്തെ പറ്റി കണ്ടു നൈട്രജൻ ഉറവിടം കണ്ടു ഊർജ്ജ ഉറവിടം എന്നിവയെക്കുറിച്ച് സംസാരിച്ചു വളർച്ചയെ പരിമിതപ്പെടുത്താൻ പോകുന്ന ഒന്ന് അത് ലിമിറ്റിങ് സബ്സ്ട്രേറ്റ് ആണ് ലിമിറ്റിങ് സബ്സ്ട്രേറ്റ് പരിഗണിച്ച് എസ്സ് എന്നത് ലിമിറ്റിങ് സബ്സ്ട്രേറ്റ് ആണ് നമുക്ക് പറയാം നിർദ്ദിഷ്ട വളർച്ചാ നിരക്കിന്റെ വ്യതിയാനം mu rx നമ്മൾ പറഞ്ഞ mu x ന് തുല്യമാണെന്ന് ഓർമ്മിക്കുക rxμx അതിനാൽ ഇവിടെ ഇതേ mu ആണെന്ന് നമുക്ക് പറയാം സബ്സ്ട്രേറ്റ് കേന്ദ്രീകരണത്തോടുകൂടിയ നിർദ്ദിഷ്ട വളർച്ചാ നിരക്കിന്റെ വ്യത്യാസം ഈ ഗ്രാഫിൽ നൽകിയിരിക്കുന്നു ഇതൊരു ചതുരാകൃതിയിലുള്ള ഹൈപ്പർബോളയാണ് ഇത് വർദ്ധിക്കുകയും പിന്നീട് എവിടെയെങ്കിലും mu m ന്റെ മൂല്യത്തിലേക്ക് പൂരിതമാവുകയും ചെയ്യുന്നു പരമാവധി നിർദ്ദിഷ്ട വളർച്ചാ നിരക്ക് ഗണിതശാസ്ത്രപരമായി ഇതിനെ പ്രതിനിധീകരിക്കുന്നതിനുള്ള ഒരു മാർഗമുണ്ട് ഇതൊരു ചതുരാകൃതിയിലുള്ള ഹൈപ്പർബോളയാണ് അതിനാൽ ചതുരാകൃതിയിലുള്ള ഹൈപ്പർബോള സമവാക്യം ഇത് ഉചിതമായി വിവരിക്കും ഇത് നമ്മൾ എടുക്കുന്ന സമവാക്യമാണ് μmSKSS കോശങ്ങളുടെ വളർച്ചാ നിരക്കിനെ സബ്സ്ട്രേറ്റ്ന്റെ സാന്ദ്രതയുടെ പ്രഭാവം നൽകുന്ന അറിയപ്പെടുന്ന മോണോഡ് മോഡലാണിത് ഇത് ഇവിടെ സംഭവിക്കുകയാണെങ്കിൽ നമുക്ക് മതിയായ സബ്സ്ട്രേറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ഈ നിബന്ധനയിൽ ആയിരിക്കുകയാണെങ്കിൽ mu ഒരു കോൺസ്റ്റന്റ് ആയി മാറുന്നു അത് mu m ആയി മാറുന്നു അതാണ് mu ഒരു കോൺസ്റ്റന്റ് ആയി ഉള്ളപ്പോൾ പൊതുവായി rx സമം mu x ഒരു കോൺസ്റ്റന്റ് ആയിരിക്കേണ്ടത് ഇല്ല നമുക്ക് മതിയായ സബ്സ്ട്രേറ്റ് ഉണ്ടെങ്കിൽ mu എന്നത് mu m ന് തുല്യമാണ് അത് ഒരു കോൺസ്റ്റന്റ് ആണ് Ks എന്നത് Sന് തുല്യമാകുമ്പോൾ എന്തുസംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം Ks മോണോഡ് മോഡലിൽ Sന് തുല്യമാണെങ്കിൽ Ks നെ S മാറ്റുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം അതിനാൽ Ks S ആയിരിക്കുമ്പോൾ mSKSSmSSSmS2Sm2 അതിനാൽ S Ks ന് തുല്യമാകുമ്പോൾ നമുക്ക് അറിയാം എപ്പോഴാണ് സബ്സ്ട്രേറ്റ് സാന്ദ്രത K s ന് തുല്യമാകുന്നത് അല്ലെകിൽ Ks സബ്സ്ട്രേറ്റ് സാന്ദ്രത ആയിരിക്കുമ്പോൾ നമുക്കറിയാം നമ്മുടെ mu അത് mu m ആയി അത് രണ്ടോ അല്ലെകിൽ പകുതിയോ പരമാവധി നിർദ്ദിഷ്ട വളർച്ചാ നിരക്ക് ആകുന്നു അതിനാൽ നമുക്ക് പരമാവധി വളർച്ചാ നിരക്ക് പകുതി ലഭിക്കുന്ന സബ്സ്ട്രേറ്റ് സാന്ദ്രതയാണ് K വളർച്ചാ നിരക്കിനെ ബാധിക്കുന്ന മറ്റ് പല തരത്തിലുള്ള ഘടകങ്ങളും അവയെ പ്രതിനിധീകരിക്കുന്നതിനുള്ള മറ്റ് പല വഴികളും ഉണ്ട് അവയിൽ ചിലത് ഇവിടെ നോക്കാം സബ്സ്ട്രേറ്റിന്റെയും ഉൽപ്പന്നത്തിൻറെയും സ്വാധീനത്തിനായുള്ള മറ്റ് മോഡലുകളും ഈ സാഹചര്യത്തിൽ ഉൽപ്പന്നത്തിന്റെ നിർദ്ദിഷ്ട വളർച്ചാ നിരക്കിനെ ബാധിച്ചേക്കാം ഉദാഹരണത്തിന് ഒരു നിശ്ചിത ശതമാനത്തിനപ്പുറം നമ്മൾ എത്തനോൾ പരാമർശിച്ചുവെന്ന് ഞാൻ കരുതുന്നു അതിൽ 18 ശതമാനവും ഇത് കോശങ്ങളുടെ വളർച്ചാ നിരക്കിനെ ബാധിക്കുന്നു അത് പ്രതിനിധീകരിക്കാം ഞാൻ നിങ്ങൾക്ക് ഇവിടെ ചില ഹ്രസ്വ പ്രാതിനിധ്യങ്ങൾ നൽകും നിരവധി മോഡലുകൾ ഉണ്ട് അവയിൽ ചിലത് μmSnKsSn ഇതിനെ മോസർ മോഡൽ എന്ന് വിളിക്കുന്നു അവിടെ നമുക്ക് മോഡലിന്റെ പാരാമീറ്ററുകളായി mu m K s n എന്നിവയുണ്ട് ഇത് മറ്റൊരു മോഡലാണ് μmS1K1S1 S2K2S2 2 സബ്സ്ട്രേറ്റുകൾ ഒരേസമയം പരിമിതപ്പെടുത്തുമ്പോൾ ഈ മോഡൽ വളരെ ജനപ്രിയമാണ് വളർച്ച പരിമിതപ്പെടുത്തുന്നതിനായി സബ്സ്ട്രേറ്റ് സംഭവിക്കുമ്പോൾ ചില സബ്സ്ട്രേറ്റുകൾ അത് ചെയ്യുന്നു അപ്പോൾ നമുക്ക് ഈ മാതൃക ഉപയോഗിക്കാം ഇതാണ് ആൻഡ്രൂസും നോക്കും നൽകിയ μmSKsS KIKIS ഇതാണ് ആൻഡ്രൂസ് നോക്ക് മോഡൽ ജെറുസാലിംസ്കി നെറോനോവ മോഡൽ എന്ന ഒരു മോഡൽ കൂടി ഞാൻ പരാമർശിക്കും ഇത് വളർച്ചയെ ഉൽപന്ന നിരോധനത്തിൻറെ ഫലം നൽകുന്നു μmSKsS KPKPP വളർച്ച നിർദ്ദിഷ്ട വളർച്ചാ നിരക്ക് വളർച്ചാ നിരക്ക് എന്നിവ വിവരിക്കുന്ന മോഡലുകളെയാണ് നമ്മൾ ഇതുവരെ നോക്കിയത് ഇപ്പോൾ നമുക്ക് ഉൽപ്പനം നോക്കാം അത് ഉൽപന്നം അല്ലാതെ മറ്റൊരു കോശങ്ങളാൽ നിർമിക്കപ്പെട്ട തന്മാത്ര ആണെകിൽ വളരെ ലളിതമായ ഒരു മോഡൽ മോഡലിനെ ഉൽപന്ന രൂപീകരണ നിരക്കിനായ് ല്യൂഡെക്കിഗ് പൈററ്റ് മോഡൽ എന്ന് വിളിക്കുന്ന മോഡൽ വ്യാപകമായി ഉപയോഗിക്കുന്നു ഇവയെലാം നിരക്കുകളുടെ മോഡലുകൾ ആണെന് ശ്രദ്ധിക്കുക ല്യൂഡെക്കിഗ് പൈററ്റ് മോഡൽ ഇതുപോലെ ആണ് rpαrxβx ഉൽപ്പന്ന രൂപവത്കരണ നിരക്ക് വളർച്ചയെ ആശ്രയിച്ചുള്ള പാരാമീറ്ററിനെ കോശങ്ങളുടെ വളർച്ചയുടെ നിരക്കുകൊണ്ട് ഗുണിച്ചതും വളർച്ചയുടെ സ്വതന്ത്ര പാരാമീറ്ററിനെ കോശങ്ങളുടെ സാന്ദ്രതയേക്കാളും കൊണ്ട് ഗുണിച്ചതും കൂട്ടി യതാകുന്നു വളർച്ചയെ ആശ്രയിച്ചുള്ള ഉൽപ്പന്നങ്ങളും വളർച്ച ആശ്രയിക്കാത്തതുമായ ഉൽപ്പന്നങ്ങളും ഉണ്ട് വളർച്ചയെ ആശ്രയിച്ചുള്ള ഉൽപ്പന്നങ്ങളെ ചിലപ്പോൾ പ്രാഥമിക മെറ്റബോളിറ്റുകൾ എന്നും വളർച്ച സ്വതന്ത്ര ഉൽപ്പന്നങ്ങളെ ദ്വിതീയ മെറ്റബോളിറ്റുകൾ എന്നും വിളിക്കുന്നു ഇവ ലൂസ് അസോസിയേഷനുകളാണ് എന്നാൽ ഇതിനെയാണ് നമ്മൾ rp എന്നത് ആൽഫ ടൈംസ് rx ന് തുല്യമായി കാണേണ്ടത് ഉൽപ്പന്ന രൂപീകരണ നിരക്ക് വളർച്ചാ നിരക്കിനേയും സെൽ സാന്ദ്രതയെയും ആശ്രയിച്ചിരിക്കുന്നു ചിലപ്പോൾ ബീറ്റ 0 ആകാം ചിലപ്പോൾ ആൽഫ 0 ആകാം മറ്റ് പല മോഡലുകളും ലഭ്യമാണ് ഈ പ്രത്യേക കോഴ്സിൽ മറ്റ് മോഡലുകളെ നമ്മൾ നോക്കില്ല പക്ഷേ മറ്റ് പല മോഡലുകളും ലഭ്യമാണ് എന്ന് ഓർമ്മിക്കുക അടുത്തതായി നമ്മൾ കാണാൻ പോകുന്നത് ഉപയോഗപ്രദമായ ആശയത്തെയാണ് അതിനെ നമ്മൾ യിൽഡ് കോയിഫിഷ്യന്റ് എന്ന് വിളിക്കുന്നു ഇത് വളരെ ലളിതമായ ഒരു ആശയമാണ് പക്ഷേ ഉപയോഗപ്രദമാണ് കൂടാതെ നമുക്ക് നിരവധി യിൽഡ് കോയിഫിഷ്യന്റകൾ നിർവചിക്കാം ഉദാഹരണത്തിന് Y ഓഫ് x സ്ലാഷ് s യിൽഡ് ഓഫ് സെൽ ആയി ബന്ധപ്പെട്ട സബ്സ്ട്രേറ്റ് സബ്സ്ട്രേറ്റ് ആധാരമാക്കിയുള്ള യിൽഡ് ഓഫ് സെൽ എന്നത് ഉൽപാദിപ്പിക്കപെടുന്ന കോശങ്ങളുടെ ഉപയോഗിക്കപ്പെട്ട അളവുകൊണ്ട് ഹരിച്ചാൽ കിട്ടുന്നതാണ് അതായത് ഉത്പാദിപ്പിക്കുന്ന കോശങ്ങളുടെ അളവ് ഹരിക്കണം ഉപഭോഗം ചെയുന്ന സബ്സ്ട്രേറ്റ് ആണ് YxSamountofcellsproducedamountofsubstrateconsumed അതുപോലെ നമുക്ക് സബ്സ്ട്രേറ്റ് ആയി ബന്ധപ്പെട്ട് ഉൽപ്പന്നത്തിന്റെ യിൽഡ് നിർവചിക്കാൻ കഴിയും ഇത് ഉൽപ്പന്നത്തിന്റെ അളവ് ഹരിക്കണം ഉപഭോഗം ചെയ്യുന്ന സബ്സ്ട്രേറ്റ് ആണ് YpSamountofproductformedamountofsubstrateconsumed മറ്റൊന്ന് ഉൽപ്പന്നവുമായി ബന്ധപ്പെട്ട് കോശങ്ങളുടെ യിൽഡ് എന്നത് ഉൽപാദിപ്പിക്കപ്പെടുന്ന കോശങ്ങളുടെ അളവ് ഉൽപ്പന്നത്തിന്റെ അളവിനാൽ വലിക്കുമ്പോൾ കിട്ടുന്നതാണ് Yxpamountofcellsproducedamountofproductformed ഈ കേസിൽ രണ്ടും ഉണ്ടാകുന്നു അതു ചിലപ്പോൾ നമ്മൾ എടുക്കുന്നു നിങ്ങൾക് ഏത് യിൽഡ് കോയിഫിഷ്യന്റ വേണമെങ്കിലും നിർവചിക്കാം ചെറിയ ഭാഗത്തേക്ക് യിൽഡ് കണക്കാക്കാമെന്നതാണ് ഇത് ചെയ്യുന്നതിൻറെ പ്രയോജനം അതുകൊണ്ടാണ് ഇത് വളരെ ഉപയോഗപ്രദമാകുന്നത് എന്നും ഈ ഭാഗം ചെറുതാണെങ്കിൽ കോൺസ്റ്റൻസി സാധാരണയായി ഒരു നല്ല അനുമാനമാണെന്നും നമുക്കറിയാം ഇത് എങ്ങനെ ചെയ്യാമെന്ന് നമ്മൾ കാണും ഇതിന്റെ ഉപയോഗം എന്താണ് എന്ന് വെച്ചാൽ നമുക്ക് 1 നിരക്ക് അറിയാമെകിൽ പ്രസക്തമായ യിൽഡ് കോയിഫിഷ്യന്റ നിന്ന് മറ്റു നിരക്ക് കണക്കാകാം ഉദാഹരണത്തിന് സബ്സ്ട്രേറ്റ് ഉപഭോഗ നിരക്ക് ആവശ്യമാണെങ്കിലും അറിയില്ലെങ്കിൽ എന്നാൽ വളർച്ചാ നിരക്ക് അറിയാമെങ്കിൽ വളർച്ചാ നിരക്കിൽ നിന്ന് സബ്സ്ട്രേറ്റ് ഉപഭോഗ നിരക്ക് കണക്കാക്കാം യിൽഡ് കോയിഫിഷ്യന്റ അറിയാമെങ്കിൽ അത് എപ്പോഴും കണക്കാക്കാം ഉദാഹരണത്തിന് സബ്സ്ട്രേറ്റ് കൺസ്മ്പ്ഷൻ റേറ്റ് rS ആണ് rS1YxSrx ഇത് യിൽഡ് കോയിഫിഷ്യന്റ നിർവചനത്തിൽ നിന്ന് നേരിട്ട് വരുന്നതാണെന്ന് നമുക്കറിയാം സബ്സ്ട്രേറ്റ് അളവ് മൂലം ഉൽപാദിപ്പിക്കപ്പെടുന്ന കോശങ്ങളുടെ അളവ് അവ അളവുകളാണ് ഇത് ഒരു യിൽഡ് കോയിഫിഷ്യന്റ് അതിനാൽ നമ്മൾ സബ്സ്ട്രേറ്റ് നോക്കുകയാണെങ്കിൽ അത് 1 മുതൽ Y xs തവണ ആയിരിക്കും rx ഇതാണ് സബ്സ്ട്രേറ്റ് ഉപഭോഗത്തിന്റെ നിരക്ക് കോശങ്ങളുടെ രൂപീകരണ നിരക്ക് അതിനാൽ നമ്മുടെ ആദ്യ മോഡലിലൂടെ പോകുമ്പോൾ ഇത് rx സമം mu x എന്ന് എഴുതാം rS1YxSrx1YxSμx അടുത്ത മൊഡ്യൂളിലെ ഉപയോഗപ്രദമായ ചില പാരാമീറ്ററുകൾ കണക്കുകൂട്ടാൻ നമ്മൾ ഇവ ഉപയോഗിക്കും ഇപ്പോൾ ഇതിനെക്കുറിച്ച് അറിയുക സ്ലൈഡ് സമയം കാണുക 3319 ഒരുപക്ഷേ നമ്മളോട് ഒരു കാര്യം കൂടി പറയാം ഒരു ആശയം കൂടി നമ്മൾ ഇത് അവസാനിപ്പിക്കുമെന്ന് കരുതുന്നു ഈ മൊഡ്യൂൾ ഇവിടെ പൂർത്തിയാക്കുക ഇതാണ് മെയിന്റനൻസ് എന്ന ആശയം ഗ്ലൂക്കോസ് എന്ന സബ്സ്ട്രേറ്റ് നമുക്കറിയാം കോശങ്ങളുടെ വർധനവിലേക്കോ കൾച്ചർ വളർച്ചയിലേക്കോ പോകുന്നു കോശങ്ങൾ കൾച്ചറിന്റെ വളർച്ചയെ കൂട്ടുന്നു പക്ഷേ കോശങ്ങൾ സങ്കീർണ്ണമായ സംവിധാനങ്ങളാണ് അവയിൽ ധാരാളം പ്രതികരണങ്ങൾ നടക്കുന്നു അവയിൽ ധാരാളം പ്രക്രിയകൾ നടക്കുന്നു ധാരാളം ജീനുകൾ പ്രോട്ടീനുകളിലേക്ക് പോകുന്നു അവയിൽ ഗതാഗതം നടക്കുന്നു ATP നിർമ്മിക്കുന്നു ATP ഉപയോഗിക്കുന്നു എല്ലാത്തരം കാര്യങ്ങളും സംഭവിക്കുന്നു എല്ലാവർക്കുമായി ഊർജ്ജം ആവശ്യമാണ് അത്തരം പ്രക്രിയകൾ അവ മെറ്റബോളിസം ആണ് ഗതാഗതം ജനിതക പരിവർത്തനം ജനിതക പ്രക്രിയകൾ തുടങ്ങിയവയെ സെൽ മെയിന്റനൻസ് എന്ന് വിളിക്കുന്നു അതിനാൽ സബ്സ്ട്രേറ്റ് കോശങ്ങളുടെ മെയിൻറ്റെനൻസ് ആയി പോകുന്നു ഇത് തൃപ്തികരമാകുമ്പോൾ അത് കോശങ്ങൾ വർധിക്കുന്നതിനായി ഉപയോഗിക്കുന്നു നമ്മൾ ഇത് ഇതുവരെ വ്യക്തമായി പരിഗണിച്ചില്ല നമ്മൾ ഇത് പരിഗണിക്കേണ്ടതുണ്ട് കാരണം സബ്സ്ട്രേറ്റ് അളവ് കുറയുമ്പോൾ അത് പൂർണ്ണമായും കോശങ്ങളുടെ മെയിൻറ്റെനൻസ് പ്രവർത്തനങ്ങളിലേക്കാണ് പോകുന്നത് വളർച്ചയൊന്നും പ്രകടമല്ല വളർച്ചയൊന്നും കാണുന്നില്ല വ്യക്തമായ മാർഗ്ഗങ്ങൾ നിരീക്ഷിക്കപ്പെടുന്നു എന്നാൽ വളർച്ചയൊന്നും നിരീക്ഷിക്കപ്പെടുന്നില്ല അതിനാൽ ഇതെല്ലാം കോശങ്ങളുടെ പരിപാലനത്തിലേക്ക് പോകുന്നു സബ്സ്ട്രേറ്റ് ഉപഭോഗം ഉണ്ടാകും പക്ഷേ അത് വളർച്ചയായി കാണിക്കുന്നില്ല അതിനർത്ഥം എല്ലാം കോശങ്ങളെ നിലനിർത്താനും കോശങ്ങളുടെ പ്രവർത്തനങ്ങൾ നിലനിർത്താനും ഉപയോഗിക്കുന്നു എന്നാണ് നിരക്കുകളുടെ അടിസ്ഥാനത്തിൽ ഇതിനെ പ്രതിനിധീകരിക്കുന്നതിനുള്ള ഒരു മാർഗ്ഗം വളർച്ചാ നിരക്ക് ഒരു പ്രത്യേക നിർദ്ദിഷ്ട വളർച്ചാ നിരക്കിന് തുല്യമാണ് ഇത് ഒരു പ്രത്യേക വളർച്ചാ നിരക്ക് കോശങ്ങളുടെ സാന്ദ്രതയേക്കാൾ x ഇരട്ടിയാണ് മാത്രമല്ല ഈ നിർദ്ദിഷ്ട വളർച്ചാ നിരക്ക് യഥാർത്ഥ നിർദ്ദിഷ്ട വളർച്ചാ നിരക്ക് തമ്മിലുള്ള വ്യത്യാസമായി നിർവചിക്കാം കോശങ്ങളുടെ വർധനവിലേക്ക് മാത്രം എല്ലാ സബ്സ്ട്രേറ്റ ലക്ഷ്യമിടുമ്പോൾ ഇത് ലഭിക്കും അതൊരു ആശയമാണ് T യഥാർത്ഥ നിർദ്ധിഷ്ട വളർച്ച നിരക്ക് T യും എന്റോജീന്സ് മെറ്റബോളിസം കോൺസ്റ്റന്റ് A യും തമ്മിലുള്ള വ്യത്യാസം ആണ് നിരീക്ഷിച്ച നിർദ്ധിഷ്ട വളർച്ച നിരക്ക് Tയഥാർത്ഥ നിർദ്ദിഷ്ട വളർച്ചാ നിരക്കും ke എൻഡോജെനസ് മെറ്റബോളിസം സ്ഥിരാങ്കം അതിനാൽ A സമം Tമൈനസ് ke rxAxT kex യിൽഡ് കോയിഫിഷ്യന്റ rs ഉപയോഗിച്ച് സബ്സ്ട്രേറ്റ് കൺസ്മ്പ്ഷൻ നിരക് 11ബൈ Y xs യിൽഡ് ഗുണിക്കണം നിർദ്ധിഷ്ട വളർച്ച നിരക്ക് ഗുണിക്കണം കോശങ്ങളുടെ സാന്ദ്രത കൂട്ടണം m ഗുണിക്കണം കോശങ്ങളുടെ സാന്ദ്രത ആണെന്ന് കാണാം rS1YxSAAxmx നമ്മൾ വളരെയധികം ആശയങ്ങൾ കണ്ടു ഈ പ്രത്യേക പ്രഭാഷണം അവസാനിപ്പിക്കുന്നതിനുള്ള നല്ലൊരു സ്ഥലമാണിതെന്ന് ഞാൻ കരുതുന്നു വളരെ ചുരുക്കത്തിൽ കോശങ്ങൾ തന്നെ ഉൽപ്പന്നങ്ങളാകാമെന്ന് നമ്മൾ കണ്ടു നമ്മൾ കണ്ടതെല്ലാം കടന്നുപോകാൻ അനുവദിക്കുകയും മറ്റ് ഉൽപ്പന്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യും ഇവയുടെ നിരക്കുകൾ വളർച്ചാ നിരക്ക് അല്ലെങ്കിൽ കോശങ്ങളുടെ വർധനവ് ഉൽപ്പന്ന രൂപീകരണ നിരക്ക് എന്നിവയ്ക്കായുള്ള സമവാക്യങ്ങൾ എഴുതാൻ നമ്മൾ നോക്കുന്നു തുടക്കത്തിൽ വളർച്ചാ നിരക്കിനുള്ള എക്സ്പ്രഷനുകൾ നമ്മൾ കണ്ടു rx mu x ന് തുല്യമാണ് rxμx എന്നത് സാഹചര്യത്തെ ആശ്രയിച്ച് ഒരു സ്ഥിരമായിരിക്കാം അല്ലെങ്കിൽ ഉണ്ടാകില്ല പിന്നെ നമ്മൾ പറഞ്ഞു മറ്റ് മോഡലുകൾ ഉണ്ട് ഇതാണ് ലോജിസ്റ്റിക് സമവാക്യം കൂടാതെ ഒരു നൂതന കോഴ്സിൽ ഒരാൾക്ക് ഘടനാപരമായ മോഡലുകൾ വേർതിരിച്ച മോഡലുകൾ എന്നിവയും മറ്റ് പലതും പരിഗണിക്കാം സബ്സ്ട്രേറ്റ് കോശങ്ങളായും ഉൽപ്പന്നങ്ങളായും പരിവർത്തനം ചെയ്യുന്നു ഗ്ലൂക്കോസ് ഒരു സാധാരണ സബ്സ്ട്രേറ്റ്ണെന്ന് നമ്മൾ കണ്ടു കാരണം ഇത് ഗ്ലൈക്കോളിസിസ് എന്നറിയപ്പെടുന്ന കോശങ്ങളിലെ ഒരു പ്രധാന മെറ്റബോളിക് പാതയിൽ പങ്കെടുക്കുന്നു കൂടാതെ ഗ്ലൂക്കോസിനായി ചില ബദലുകൾ നമ്മൾ കണ്ടു കാരണം വ്യവസായത്തിന്റെ പശ്ചാത്തലത്തിൽ നിന്ന് ഗ്ലൂക്കോസ് ചെലവേറിയതാണ് അന്നജം സെല്ലുലോസും ലിഗ്നോ സെല്ലുലോസിക് വസ്തുക്കളും ഗ്ലൂക്കോസിന് നല്ലൊരു ബദലാണ് അന്നജവും സെല്ലുലോസും ഇതിനകം വളരെയധികം ഉപയോഗിച്ചു ഗ്ലൂക്കോസ് ലഭിക്കുന്നതിന് ലിഗ്നോ സെല്ലുലോസിക് വസ്തുക്കളുടെ ഉപയോഗത്തിൽ ധാരാളം ഗവേഷണങ്ങൾ നടക്കുന്നു ഒരു മീഡയം കാർബൺ സ്രോതസ്സ് ഊർജ്ജ സ്രോതസ്സ് നൈട്രജൻ ഉറവിട ലവണങ്ങൾ പോഷകങ്ങൾ എന്നിവ കണ്ടെത്തുന്നത് എന്താണെന്ന് നമ്മൾ കണ്ടു അവയിൽ ഏതെങ്കിലും പരിമിതപ്പെടുത്തുന്ന സബ്സ്ട്രേറ്റ് വളർച്ചയെ പരിമിതപ്പെടുത്തുന്ന ഒരു ks പിന്നെ mu ൽ സബ്സ്ട്രേറ്റ് ഉൽപന്ന സാന്ദ്രത വർദ്ധിപ്പിക്കുന്നതിന് മറ്റ് മോഡലുകൾ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു മോസർ മോഡലും 2 സബ്സ്ട്രേറ്റുകൾ ഒരേസമയം പരിമിതപ്പെടുത്തുമ്പോൾ മോഡൽ ആൻഡ്രൂസും നോക്ക് മോഡലും നമുക്ക് സബ്സ്റ്റേറ്റ് ഇൻഹിബിഷൻ ജെറുസാലിംസ്കി നെറോനോവ എന്നിവരുടെ മാതൃക ഇത് വളർച്ചയെ ഉൽപന്ന നിരോധനത്തിൻറെ ഫലം നൽകുന്നു ഉൽപ്പന്ന രൂപീകരണ നിരക്കിനായി ല്യൂഡെക്കിംഗ് പൈററ്റ് മോഡൽ എന്ന് വിളിക്കപ്പെടുന്ന വളരെ ജനപ്രിയമായ മോഡലിലേക്ക് നമ്മൾ നോക്കി അത് അങ്ങനെ പോകുന്നു ആൽഫ സമയത്തിന് തുല്യമാണ് വളർച്ചയെ ആശ്രയിച്ചുള്ള പാരാമീറ്ററും ബീറ്റാ സമയവും x വളർച്ചാ സ്വതന്ത്ര പാരാമീറ്റർ rpαrxβx മറ്റ് പല മോഡലുകളും ലഭ്യമാണ് യീൽഡ് കോയിഫിഷ്യന്റ എന്താണെന്ന് നമ്മൾ കണ്ടു നിരവധി യീൽഡ് കോയിഫിഷ്യന്റ് നിർവ്വചിക്കാൻ കഴിയും അത് അടിസ്ഥാനപരമായി ഒരു തുകയുടെ അളവാണ് തുടർന്ന് അവ ഒരു നിരക്ക് മറ്റൊന്നിലേക്ക് പരിവർത്തനം ചെയ്യാൻ ഉപയോഗിക്കാം അത് നമ്മൾ അവ ഉപയോഗിക്കുന്നതിനുള്ള ഒരു മാർഗമാണ് തുടർന്ന് മെയിന്റനൻസ് എന്ന ആശയം നമ്മൾ പരിശോധിച്ചു ഇത് കോശങ്ങളിലെ പ്രവർത്തനങ്ങൾ ആദ്യം പരിപാലിക്കാൻ പോകുന്ന മെറ്റബോളിസം ആണ് അതായത് മെറ്റബോളിസം ഗതാഗതം മറ്റ് കാര്യങ്ങൾ ജനിതക പ്രക്രിയകൾ അത് സാറ്റിസ്ഫൈ അയാൽ അതു പിന്നെ മൾട്ടിപ്ലൈ ആകുന്നു അതിനാൽ സബ്സ്ട്രേറ്റ് അളവ് വളരെ കുറവായിരിക്കുമ്പോൾ ഒരാൾക്ക് വളർച്ച കാണാനാകില്ല പ്രത്യക്ഷ വളർച്ചാ നിരക്കും യഥാർത്ഥ വളർച്ചാ നിരക്കും ഒരു എൻഡോജെനസ് മെറ്റബോളിസം സ്ഥിരാങ്കവും ke തമ്മിലുള്ള ബന്ധം എന്തെന്നാൽ T മൈനസ് ke ഈക്വൽസ് A ആണ് rxAxT kex വ്യക്തമായ നിർദ്ദിഷ്ട വളർച്ചാ നിരക്കും ഒരു പ്രത്യേക മെയിന്റനൻസ് നിരക്കും കണക്കിലെടുത്ത് സബ്സ്ട്രേറ്റ് ഉപഭോഗത്തിന്റെ നിരക്ക് എഴുതാം rS1YxSAAxmx ലെക്ചർ നമ്പർ 4 ന് ഇത് മതിയായതാണെന്ന് ഞാൻ കരുതുന്നു ലക്ചർ നമ്പർ 5 ൽ നിങ്ങളെ വീണ്ടും കാണും